തുടർ ചാർജ് വിന്യാസത്തിന്റെ എനർജി 1 ചാർജും ചാർജ് വിന്യാസവും എങ്ങനെയാണ് ഇലക്ട്രിക്ക് ഫീൽഡ് ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ ഇവ ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്നും നമ്മൾ കണ്ടു അടുത്ത രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ ഒരു കൂട്ടം ചാർജുകൾ അല്ലെങ്കിൽ ചാർജ് വിന്യാസം കൊണ്ട് ഒരു സിസ്റ്റം ത്തിന്റെ എനർജിയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ലെ എനർജി വർക്ക് ഇവയെകുറിച്ചാണ് പ്രതിപാദിക്കാൻ പോവുന്നത് ആദ്യമായി നമുക്ക് ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം ഇവിടെ എനിക്ക് ഒരു പോയിന്റ് ചാർജ് Q1 ഉണ്ടെന്നിരിക്കട്ടെ ഇതിന്റെ സമീപത്തേക്കായി r12 അകലത്തിലായി മറ്റൊരു ചാർജ് Q2 കൊണ്ടുവരുന്നെന്നിരിക്കട്ടെ പൊട്ടൻഷ്യലിന്റെ നിർവ്വചനം അനുസരിച്ച് ഇതിനായി ചെയ്യേണ്ടിവരുന്ന വർക്ക് W എന്നത് Q1 ചാർജ് കാരണം r12 വിലെ പൊട്ടൻഷ്യൽ VQ 1 ✕ ചാർജ് Q2 ആയിരിക്കും ഈ വർക്ക് Q1 Q2 ഇവയെ അപേക്ഷിച്ച് സിമെട്രിക് അഥവാ സമമിതിയിലാണ്

അതുകൊണ്ട് Q2 എന്ന ചാർജിനടുത്തേക്ക് r12 അകലത്തിലായി ചാർജ് Q1 കൊണ്ടുവരുന്നതിനും ഇതേ വർക്ക് തന്നെയാണ് വേണ്ടിവരുന്നത് മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ ഇതേ വർക്ക് തന്നെയാണ് Q2 വിന്റെ പൊട്ടൻഷ്യലിലേക്ക് r12 ദൂരത്തിൽ ചാർജ് Q1 കൊണ്ടുവരുന്നതിന് ചെയ്യേണ്ടിവരുന്നതും അതായത് വർക്ക് അടുത്തതായി നമുക്ക് അറിയാനുള്ളത് നമ്മൾ ഒരു ചാർജിനു പകരം ചാർജുകളുടെ ഒരു വ്യൂഹം അതായത് വളരെ അധികം ചാർജുകൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ഇലക്ട്രിക്ക് ഫീൽഡിലേക്കു കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇതിൽ നിന്നും ക്രമേണ നമുക്ക് ചാർജ് വിന്യാസത്തിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ച് ഈ ചാർജ് വിന്യാസം പ്രതിനിധാനം ചെയ്യാവുന്നതാണ് ഇവിടെ ചെയ്യപ്പെടുന്ന വർക്കിന്റെ പ്രാധാന്യം എന്താണ് മാത്രമല്ല ഇവിടെ ഏതു തരത്തിലുള്ള എനർജി ആണ് ഉണ്ടാവുന്നത് നമുക്കറിയാം ഇവിടെയുള്ള എനർജി ചാർജിന്റെ സ്ഥാനത്തിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് അതുകൊണ്ടുതന്നെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജ്ജമാണ് ഉണ്ടാവുക നമ്മൾ ഈ ചാർജ് വ്യൂഹം അല്ലെങ്കിൽ ചാർജ് വിന്യാസം നിർമ്മിച്ചെടുക്കാൻ ചെയ്യപ്പെടുന്ന വർക്ക് അഥവാ പ്രവൃത്തി ആണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയി മാറുന്നത് നമ്മൾ രണ്ടു ചാർജുകൾ Q1 ഉം Q2 ഉം സ്വതന്ത്രമായി വെക്കുകയാണെന്നു കരുതുക ഇവ രണ്ടും ഒരേ തരത്തിലുള്ള ചാർജുള്ളവയാണെന്നു സങ്കൽപ്പിക്കുക അപ്പോൾ അവ തമ്മിൽ വികർഷിച്ച് വിപരീത ദിശയിൽ ദൂരേക്ക് പോകാൻ ശ്രമിക്കും അപ്പോൾ Q1 ചാർജ് v1 വെലോസിറ്റി യിലും Q2 ചാർജ് v2 വെലോസിറ്റിയിലും ഇൻഫിനിറ്റി യിൽ എത്തുന്നു എന്ന് സങ്കൽപ്പിക്കുക Q1 ന്റെ മാസ്സ് m1 Q2 വിന്റെ മാസ്സ് m2 എന്നിരിക്കട്ടെ അപ്പോൾ ഈ രണ്ടു ചാർജുകളുടെ ഫൈനൽ കൈനറ്റിക് എനർജി അഥവാ അന്തിമ ഗതികോർജം ഈ ചാർജ് വിന്യാസത്തിന്റെ ആദ്യ ഊർജ്ജത്തിന് തുല്യമാണ് അതായത് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന എനർജിയുടെ അളവ് ഏകദേശം എത്രയായിരിക്കുമെന്ന് നോക്കാം Q1 Q2 ഇവ മൈക്രോ കൂളംബിൽ ഉദാഹരണമായി 1 µC എന്നെടുക്കാം ചാർജുകൾ തമ്മിലുള്ള അകലം 1cm എന്നെടുത്താൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഏകദേശം കണ്ടുപിടിക്കാം

അപ്പോൾ മൈക്രോ കൂളംബിലുള്ള രണ്ടു ചാർജുകൾ 1 cm അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ പരാമർശിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഏകദേശം 1 ജൂൾ ആയിരിക്കും ഇതിനു പകരം കൂളംബിലുള്ള രണ്ടു ചാർജുകൾ 1m അകലത്തിൽ ആണെങ്കിൽ പോലും എനർജി 109 J ഉണ്ടായിരിക്കും 1 C എന്നാൽ വളരെ കൂടുതൽ ചാർജുണ്ടെന്നു നിങ്ങൾക്കറിയാമല്ലോ അടുത്തതായി രണ്ടു ചാർജുകൾ ഒരുമിച്ചു കൊണ്ടുവരുന്നതിന് പകരം ധാരാളം ചാർജുകൾ ഉദാഹരണമായി Q1 Q2 Q3 തുടങ്ങിയവ ഓരോന്നായി നമ്മൾ ഒന്നിന് പുറകെ ഒന്നായി കൊണ്ടുവരികയാണെന്ന് കരുതുക ആദ്യം നമുക്കിവിടെ Q1 ചാർജ് ഉണ്ടെന്നിരിക്കട്ടെ ഇതിനടുത്തേക്ക് r12 അകലത്തിലേക്ക് മറ്റൊരു ചാർജ് Q2 കൊണ്ടുവരുന്നെന്ന് കരുതുക ഇപ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് അടുത്തതായി Q3 എന്ന മറ്റൊരു ചാർജ് Q1 Q2 ഇവയിൽ നിന്നും യഥാക്രമം r13 r23 അകലത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ ചാർജ് കൊണ്ടുവരുന്നതിനായി നമ്മൾ Q1 Q2 ചാർജുകാരണമുള്ള ഫോഴ്സിന് എതിരായി വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എനർജി ഈ രണ്ടു ചാർജും കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി കൂടെ ചേർത്തുള്ള ആകെ തുകയായിരിക്കും അപ്പോൾ നമുക്ക് പുതിയതായി രണ്ടു പദം കൂടെ ലഭിക്കുന്നു അതായത് എനർജി കാണാൻ സൂപ്പർപോസിഷൻ തത്വമനുസരിച്ച് ഓരോ ചാർജിന്റെയും പൊട്ടൻഷ്യൽ വേറെ വേറെ കണ്ടെത്തി അവയുടെ അകെ തുക കാണണം അതായത് ഇനി അടുത്ത ചാർജ് Q4 കൂടി ഇവിടേയ്ക്ക് കൊണ്ടുവരുന്നതായി സങ്കല്പിച്ചാൽ ഈ ചാർജ് മറ്റു മൂന്ന് ചാർജുകളുടെയും പൊട്ടൻഷ്യലിലേക്ക് വരുന്നത് കാരണം നമുക്ക് ആ മൂന്നു പൊട്ടൻഷ്യൽ പദം കൂടെ ഇതിനോടുകൂടെ ചേർക്കേണ്ടതായുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചാർജ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കാണാനുള്ള സമവാക്യത്തിലെ പദങ്ങളും കൂടുന്നു അപ്പോൾ ചാർജ് Q1 ന് അടുത്തേക്ക് Q2 Q3 Q4 QN എന്നിങ്ങനെ N 1 ചാർജുകൾ കൊണ്ടുവരികയാണെങ്കിൽ ആകെ വർക്ക് ഈ ഇക്വേഷനിൽ ഒന്നാമത്തെ പദം Q1 ന്റെ പൊട്ടൻഷ്യലിൽ Q2 Q3 Q4 QN ചാർജുകൾ കൊണ്ടുവരാനുള്ള വർക്ക് ആണ് ഇവിടെ ചാർജുകൾ തമ്മിലുള്ള അകലം r 1 j എന്നെടുത്തു അടുത്തത് Q2 വിന്റെ പൊട്ടൻഷ്യലിൽ Q1 Q3 Q4 QN ചാർജുകൾ കൊണ്ടുവരാനുള്ള വർക്ക് ആണ് ഇതിൽ Q1 Q2 തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഒന്നാമത്തെ പദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് j 345 N എന്നെടുത്തത് ഇതിനെ ചാർജുകൾ തമ്മിലുള്ള അകലം കാണിക്കുന്ന r 2 j കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അടുത്ത പദം Q3 യുടെ പൊട്ടൻഷ്യലിൽ Q1 Q2 Q4 QN ചാർജുകൾ കൊണ്ടുവരാനുള്ള വർക്ക് ആണ് ഇതിൽ Q1 Q3 തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഒന്നാമത്തെ പദത്തിലും Q2 Q3 തമ്മിലുള്ള പൊട്ടൻഷ്യൽ രണ്ടാമത്തെ പദത്തിലും നേരത്തെ വന്നതാണ് അതുകൊണ്ടാണ് j 45 N എന്നെടുത്തത് ഇതിലെ പദങ്ങളെ സാമാന്യവത്കരിച്ച് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ് അതായത് N ചാർജുകളുടെ ഒരു വ്യൂഹം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ചെയ്യേണ്ടിവരുന്ന വർക്ക് അതായത് പൊട്ടൻഷ്യൽ എനർജി ഇത് നിങ്ങൾ ഒന്ന് വിപുലീകരിച്ച് നേരത്ത എഴുതിയ ഇക്വേഷൻ തന്നെ കിട്ടുന്നില്ലേ എന്ന് നോക്കണം ഈ ഇക്വേഷൻ വേണമെങ്കിൽ മറ്റൊരു രീതിയിലും എഴുതാം ഇവിടെ നമ്മൾ j i എന്നെടുക്കുന്നില്ല അതിനു പകരം j യുടെ 1 മുതൽ N വരെയുള്ള എല്ലാ വാല്യൂകളും എടുക്കുന്നു അപ്പോൾ ഇക്വേഷനിൽ രണ്ടു പ്രാവശ്യം ഒരേ Qi Qj വരുമല്ലോ അതുകൊണ്ടു ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായുണ്ട് മാത്രമല്ല i j എന്ന കണ്ടീഷൻ ഒഴിവാക്കുകയും വേണം ഇതെല്ലം ചേർത്ത് ഇതാണ് ചാർജുകളുടെ വ്യൂഹത്തിനായുള്ള സമവാക്യം ഇവിടെ നമ്മൾ V എന്നെഴുതുന്നതിനു പകരം വർക്ക് W എന്നാണ് എഴുതിയിരിക്കുന്നത് സിസ്റ്റത്തിന്റെ എനർജി എന്നത് ഈ ചാർജ് വ്യൂഹം ഒരുമിച്ചു കൊണ്ടുവരുന്നതിന് ചെയ്ത വർക്ക് ആയിരിക്കുമല്ലോ അതുകൊണ്ടു ഈ ചാർജ് വ്യൂഹത്തിന്റെ എനർജി അടുത്തതായി നമുക്ക് ഒരു ചാർജ് വിന്യാസം സങ്കല്പിക്കാം ഇവിടെ നമുക്ക് ചാർജ് വിന്യസിച്ചിരിക്കുന്ന ഒരു മേഖല എടുക്കാം ഈ ചാർജ് വിന്യാസ മേഖലയെ വളരെ ചെറിയ ചെറിയ വോളിയങ്ങൾ ചേർന്നതായി സങ്കല്പിച്ചാൽ ഇതിൽ റെഡ് കളറിൽ ഉള്ള വോളിയത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ചാർജും ബ്ലൂ കളറിൽ ഉള്ള വോളിയത്തിൽ കാണിച്ചിരിക്കുന്നത് മറ്റൊരു ചാർജുമായി കരുതാം ഇവ തമ്മിൽ പരസ്പര പ്രവർത്തനമുണ്ടാകുന്നതാണ് ഇതിൽ റെഡ് കളറിലുള്ള വോളിയം ഒറിജിൻ ൽ നിന്നും r ദൂരത്തിലും ബ്ലൂ കളറിലുള്ള വോളിയം dV ഒറിജിനിൽ നിന്നും r ദൂരത്തിലുമാണ് ഇവ തമ്മിലുള്ള ദൂരം r r ആയിരിക്കും ഇവതമ്മിലുള്ള പ്രതിപ്രവർത്തന ഫലമായുള്ള എനർജി കാണാനായി നമുക്ക് ഇവയുടെ ചാർജ് ലഭിക്കണം അതിനായി ചാർജ് ഡെൻസിറ്റിയെ വോളിയം കൊണ്ട് ഗുണിക്കണം അതായത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന വോളിയത്തിന്റെ ചാർജ് dV അതുപോലെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന വോളിയത്തിന്റെ ചാർജ് r dV ഇതുപയോഗിച്ച് എനർജിയുടെ സമവാക്യമെഴുതി മുഴുവൻ വോളിയത്തിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്യണം ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എനർജിയുടെ സമവാക്യം ഇവിടെ i ≠ j എന്നതിന് പകരമായി ഒരു കണ്ടീഷനും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഇവിടെ അതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വോളിയം വളരെ വളരെ ചെറിയതാണ് എന്നത് കാരണം dV rdV എന്നത് r r എന്ന കണ്ടീഷനിൽ വളരെ വളരെ ചെറുതാകുന്നു അതുകൊണ്ടു തന്നെ ഇതിനെ r r കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് സീറോയ്ക്ക് അടുത്തുള്ള വാല്യൂ ആയിരിക്കും അതിനാൽ നേരത്തെ കിട്ടിയ ഇക്വേഷനിലെ i j എന്ന കണ്ടീഷൻ ഇവിടെ പ്രസക്തമല്ല അപ്പോൾ ഒരു തുടർച്ചയായ ചാർജ് വിന്യാസമുണ്ടെങ്കിൽ അതിൽ വളരെ സൂക്ഷ്മമായ വോളിയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓരോ വോളിയത്തിനും അതിനോട് തന്നെ ഉള്ള പ്രതിപ്രവർത്തന ഫലമായുണ്ടാകുന്ന എനർജി സീറോ ആയി മാറുന്നു കാരണം നമ്മൾ പറഞ്ഞത് പോലെ dV dV0 ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉൾകൊള്ളിച്ചുകൊണ്ട് തുടർച്ചയായ ചാർജ് വിന്യാസത്തിന്റെ എനർജി എന്ന് എഴുതുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്തരം തുടർച്ചയായ ചാർജ് വിന്യാസം വരുന്ന കുറച്ചു ഉദാഹരണങ്ങൾ എടുത്ത് അവയുടെ എനർജി കണ്ടുപിടിക്കാം